നമസ്കാരം മെക്കാനൊബയോളജിക്ക് ആമുഖം എന്ന നമ്മുടെ ലെക്ച്ചറിലേക്ക് സ്വാഗതം അവസാന ക്ലാസിൽ ഞാൻ ഫോക്കൽ അഡ്ഹീഷനുകളുടെFocal adhesion പ്രവർത്തനം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ചില ഫോക്കൽ അഡ്ഹീഷൻ പ്രോട്ടീനുകളെപ്പറ്റി Focal adhesion വിവരിച്ചിരുന്നു ഞാൻ ഒരു സെൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവയെ ഫോക്കൽ അഡ്ഹീഷനുകളായി ഉൾപ്പെടുത്താം ഇവ നിങ്ങളുടെ ഫോക്കൽ അഡ്ഹീഷനുകളാണ് ഞാൻ F എഴുതുകയും അവസാന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ചില പ്രധാന ഫോക്കൽ അഡ്ഹീഷനുകൾ Focal adhesions ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്റഗ്രിൻ ടാലിൻ പാക്സിലിൻ വെൻകുലിൻ ഫോക്കൽ അഡ്ഹീഷൻ കൈനാസ് അല്ലെങ്കിൽ FAK ആൽഫ ആക്ടിനിൻα actinin എന്നിവ ഈ അഡ്ഹീഷനുകളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ ഈ ഫോക്കൽ അഡ്ഹീഷൻ പ്രോട്ടീനുകളെല്ലാം വിവിധ പങ്ക് വഹിക്കുന്നു അഡ്ഹീഷനുകളിൽ സ്ഥിതിചെയ്യുന്ന 100 ൽ അധികം പ്രോട്ടീനുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവ എങ്ങനെയാണ് സ്പേഷ്യലി സ്ഥിതിചെയ്യുന്നത് എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ക്ലെയർ വാട്ടർമാൻ സ്റ്റോർ സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് നൽകിയിട്ടുണ്ട് സൂപ്പർ റെസല്യൂഷൻ മൈക്രോസ്കോപ്പി ടെക്നിക്കുകൾക്ക് X Y തലത്തിൽ 20 നാനോമീറ്റർ ഓർഡർ റെസല്യൂഷനുമുണ്ട് കൂടാതെ Z ദിശയിൽ 10 മുതൽ 15 നാനോമീറ്റർ വരെയും ഇത് ഉപയോഗിച്ച് ഫോക്കൽ അഡ്ഹീഷനുകൾക്കുള്ളിലെ വ്യക്തിഗത ഫോക്കൽ അഡ്ഹീഷൻ പ്രോട്ടീനുകളുടെ സ്പേഷ്യൽ പ്രാദേശികവൽക്കരണം അവർ നിർണ്ണയിച്ചു I എന്നത് ഇന്റഗ്രിനിൻറെ ചുരുക്കെഴുത്താണ് നിങ്ങൾക്ക് ഈ സെല്ലും മാട്രിക്സ്സും ഉണ്ട് പ്രതലത്തിനു ഏറ്റവും അടുത്തുള്ളത് തീർച്ചയായും ഇന്റഗ്രിനാണ് കാരണം ഇത് സെല്ലിന്റെ പുറം വശത്തെ സെല്ലിന്റെ അകം വശവുമായി വ്യാപൃതമാക്കുന്നു ഇന്റഗ്രിനു മുകളിൽ നിങ്ങൾക്ക് ഇന്റഗ്രിൻ സിഗ്നലിംഗ് പാളി ഉണ്ട് അതിൽ പാക്സിലിൻ F A K പോലുള്ള പ്രോട്ടീനുകൾ ഉണ്ട് ഈ രണ്ട് പ്രോട്ടീനുകൾക്കും നേരിട്ട് ഇന്റഗ്രിനുകളുമായി ബന്ധിക്കാൻ കഴിയും ഫോഴ്സ് ട്രാൻസ്ഡക്ഷൻ പാളിയിൽ നിങ്ങൾക്ക് വിൻകുലിനും അതിലും പ്രധാനപ്പെട്ട ടാലിനും ഉണ്ട് അത് ഒരു കോണീയ കോൺഫിഗറേഷൻ പ്രദർശിപ്പിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ടാലിന്റെ N ടെർമിനൽ ഡൊമെയ്ൻ ഇന്റഗ്രിനുകൾക്ക് സമീപമായിരിക്കും കാരണം ടാലിൻ ഇന്റഗ്രിൻ പ്രവർത്തനനിരതമാക്കുന്നതുമായിബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ടാലിൻ ഇന്റഗ്രിനുകളെ സജീവമാകുന്നു ടാലിനുമായി ബന്ധിക്കുന്ന വിൻകുലിനും നിങ്ങൾക്ക് ഉണ്ട് ഈ രണ്ട് പ്രോട്ടീനുകളും ഫോഴ്സ് ട്രാൻസ്ഡക്ഷൻ ഉണ്ട് അതിന് മുകളിൽ ഉള്ള റെഗുലേറ്ററി പാളിയിൽ ആക്റ്റിൻ ഉണ്ട് ഇവിടെയാണ് ആൽഫ ആക്റ്റിൻ α Actin ഉള്ളത് ഇത് മൊത്തത്തിൽ അഡ്ഹീഷൻ ആണെങ്കിൽ അവയ്ക്ക് ഏറ്റവും മുകളിൽ ഈ അഡ്ഹീഷനുകളിൽ നിന്ന് പുറപ്പെടുന്ന സ്ട്രെസ് ഫൈബറുകൾ ഉണ്ട് അപ്പോൾ ഇവയാണ് നിങ്ങളുടെ സ്ട്രെസ് ഫൈബറുകൾ അതിനാൽ ഇത് അഡ്ഹീഷനുകൾ ക്കുള്ളിലെ പ്രോട്ടീനുകളുടെ പ്രത്യേക ഘടന കാണിക്കുന്നു ഒരേ സെല്ലിൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരം അഡ്ഹീഷനുകൾ ഉണ്ടെന്നും അവയുടെ വലുപ്പങ്ങൾ വ്യത്യസ്തമാണെന്നും ചലനാത്മകത വ്യത്യസ്തമാണെന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു സെൽ ഈ ദിശയിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അറ്റത്തെ ലീഡിംഗ് എഡ്ജ് അല്ലെങ്കിൽ ലാമെല്ലിപോഡിയ എന്ന് വിളിക്കുന്നു അതേ സെല്ലിൻറെ ഒരു വശത്തു നിന്നുള്ള ചിത്രം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ സെൽ ഈ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നു ഇവിടെയാണ് നിങ്ങളുടെ ലാമെല്ലിപോഡിയ അവയുടെ ചുവടെ ഫോക്കൽ കോംപ്ലക്സുകൾ എന്ന് വിളിക്കുന്ന ഈ ചെറിയ കുത്തുകൾ ഉണ്ട് ഇവ അധികവും കുത്തുകൾ പോലെയാണ് അതിനാൽ അവ വലിപ്പത്തിൽ ഏകദേശം ഒരു മൈക്രോൺ നീളമുള്ളവയാണ് ഈ അഡ്ഹീഷനുകൾ രൂപാന്തരപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതായത് രൂപാന്തരപരമായും ഘടനാപരമായും അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഘടനയുടെ കാര്യത്തിൽ ഇവ പാക്സിലിൻ വിൻകുലിൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് അതിനാൽ സെല്ലുകളുടെ ചുറ്റുമായി നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും ചെറിയ അഡ്ഹീഷനുകളാണ് ഇവ ഞാൻ വരച്ച ഈ വലിയ അഡ്ഹീഷനുകളെ ഫോക്കൽ അഡ്ഹീഷനുകൾ എന്ന് വിളിക്കുന്നു സെല്ലിന് ചുറ്റുമായി കാണുന്ന ഈ ഫോക്കൽ അഡ്ഹീഷനുകൾക്ക്2 മുതൽ 5 മൈക്രോൺ വരെ നീളമുണ്ടാകാം ഇവ കൂടുതലും ദീർഘവൃത്ത ആകൃതിയിലാണ് മാത്രമല്ല ഇവയുടെ ഘടനയിൽ നിങ്ങൾക്ക് ആൽഫ വി α V പാക്സിലിൻ വിൻകുലിൻ ആൽഫ ആക്ടിനിൻ α actinin ടാലിൻ FAK തുടങ്ങി മറ്റു പല ഇന്റെഗ്രിനുകളും ഉണ്ട് അതിനാൽ ഈ ഫോക്കൽ അഡ്ഹീഷന്റെ ശരാശരി സമയ സ്കെയിൽ നോക്കുകയാണെങ്കിൽ മറ്റ്ഫോക്കൽ കോംപ്ലക്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ കൂടുതൽ സ്ഥിരതയുള്ളവയാണ് ഇതിനു മുകളിലായി നിങ്ങൾക്ക് ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ ഉണ്ടാകാം ഇവ 1 മുതൽ 10 മൈക്രോൺ വരെ നീളമുള്ളവയാണ് അവ കൂടുതൽ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ അവ സെല്ലുകളുടെ മധ്യ ഭാഗത്തായാണ് കാണുന്നത് അവയ്ക്ക് ആൽഫ 5 ഇന്റഗ്രിനുംα 5 Integrin ടെൻസിൻ എന്ന തന്മാത്രയും ഉണ്ട് F A കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയും കൂടുതൽ സ്ഥിരതയുള്ളവയാണ് ഞാൻ ഇത് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ പക്കൽ ഫോക്കൽ കോംപ്ലക്സുകൾ ഫോക്കൽ അഡ്ഹീഷനുകൾ അതുപോലെ ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ എന്നിവ ഉണ്ട് അതിനാൽ സെല്ലുകളിൽ ആദ്യം അഡ്ഹീഷനുകൾ രൂപപ്പെടുമ്പോൾ ഇവ ചെറിയ കുത്തുകൾ ആയി പ്രത്യക്ഷപ്പെടാം ഇവയെ നേസെന്റ് അഡ്ഹീഷനുകൾ എന്നും വിളിക്കുന്നു നിങ്ങൾ സമയപരിധി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കൽ കോംപ്ലക്സുകൾ അഥവാ F C കാണാൻ തുടങ്ങുന്നത് ഡെൽറ്റ t ഒരു മിനിറ്റ് ഓർഡറിൽ ആണ് നേസെന്റ്അഡ്ഹീഷനുകകളിൽ നിന്ന് F C ഉണ്ടാവുന്നു ഓർഡർ ഡെൽറ്റ t 5 മിനിറ്റിൽ നിങ്ങൾക്ക് FAsഉണ്ട് തുടർന്ന് ഡെൽറ്റ t 20 മിനിറ്റിൽ നിങ്ങൾക്ക് ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ ഉണ്ട് അവ വലുപ്പത്തിൽ പൂർണത എത്തുന്നതിനോടൊപ്പം രൂപശാസ്ത്രപരമായും അതിനോടൊപ്പം തന്നെ ഘടനയിലും പൂർണതയാർർജിക്കുന്നു അതിനാൽ ഇവ രണ്ടും ഒരേ സമയം സംഭവിക്കുന്നു കൂടാതെ അപക്വമായ നേസെന്റ് അഡ്ഹീഷനുകളെ പൂർണതയുള്ള ഫൈബ്രില്ലർ അഡ്ഹീഷനുകൾ ആക്കുന്ന ഈ പരിപ്രവർത്തനം നടത്തുന്ന പ്രതിനിധി ഫോഴ്സുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അവർ വെറുതേ ഒന്നിച്ചുകൂടുകയല്ല ചെറിയ അഡ്ഹീഷകളെ വലിയവയിലേക്ക് എത്തിക്കുന്ന പരിവർത്തനം ചെയ്യുന്നത് ഫോഴ്സുകളാണ് ഇതു സൂചിപ്പിക്കുന്നത് പ്രോട്ടീൻ അൺ ഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നലുകൾ പോസിറ്റീവ് സൈക്കിളുകളിലേക്ക് നയിക്കുകയും അവ കൂടുതൽ പ്രോട്ടീനുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്ഹീഷനുകളുടെ പൂർണത ലഭിക്കുന്നത് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഫോഴ്സുകളാണ് അഡ്ഹീഷനുകളുടെ പൂർണതയിലേക്ക് നയിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പഠനങ്ങളിലൊന്ന് ഫോഴ്സുകളോട് ഫോക്കൽ അഡ്ഹീഷനുകൾ എത്രമാത്രം സെൻസിറ്റീവ് ആണ് എന്ന ചോദ്യത്തെ കുറിച്ചായിരുന്നു പ്രൊഫസർ അലക്സാണ്ടർ ബെർഷാഡ്സ്കി ആണ് ഈ പരീക്ഷണം നടത്തിയത് അതിനായി അദ്ദേഹം പ്രതലത്തിൽ സ്ഥിതിചെയ്യുന്ന ഒരു സെല്ലും ഒരു പൈപ്പറ്റും ഉപയോഗിച്ചു ഇതൊരു പൈപ്പറ്റാണ് ഇതിൻറെ തന്നെ ഒരു വശത്തിൽ നിന്നുള്ള ദൃശ്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂക്ലിയസ്സോടു കൂടിയ ഈ സെൽ ഉണ്ട് നിങ്ങൾ പൈപ്പറ്റ്ഉപയോഗിച്ച് ഇതിൽ മുകളിൽ കൂടി ഉരുട്ടുന്നു അതിനാൽ പ്രധാനമായും നിങ്ങൾ ചെയ്തത് ഈ സെല്ലുകളിൽ ചില പ്രാദേശിക ഫോഴ്സുകളെ പ്രയോഗിച്ചു എന്നതാണ് G F P വിൻകുലിൻ ഉപയോഗിച്ച് ലേബൽ ചെയ്ത ഫൈബ്രോബ്ലാസ്റ്റുകൾ ആണ്ഈ സെല്ലുകളിൽ കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾക്ക് സൈറ്റോപ്ലാസ്മിക് പ്രാദേശികവൽക്കരണം ഉണ്ടായിരുന്നു തുടർന്ന് നിങ്ങൾ എന്താണ് ചെയ്തത് ഈ പൈപ്പറ്റ് ഉപയോഗിച്ച് സെല്ലിൽ ഉരുട്ടി അത് നീക്കം ചെയ്തയുടനെ അദ്ദേഹം കണ്ടെത്തിയത് ഫോഴ്സിൻറെ പ്രയോഗം നടത്തിയ സ്ഥാനത്ത് അഡ്ഹീഷനുകളുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ് അതായത് ഫോഴ്സിൻറെ പ്രയോഗം നടത്തുന്ന സ്ഥലത്ത് അഡ്ഹീഷനുകളുടെ വലുപ്പം വർദ്ധിച്ചിരിക്കുന്നു സെല്ലുകളിലെ ഫോക്കൽ അഡ്ഹീഷനുകൾ ഫോഴ്സിനെ ആശ്രയിച്ചുള്ള വളർച്ച പ്രകടമാക്കും എന്നതിനെ ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെടുത്തി ഫോക്കൽ അഡ്ഹീഷനുകൾ ഫോഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിന്റെ ആദ്യ തെളിവാണ് ഇത് അതിനാൽഫോഴ്സുകൾ ഫോക്കൽ അഡ്ഹീഷനുകളുടെ വളർച്ചയെ സ്വാധീനിക്കുകയോ അതിലേക്ക് നയിക്കുകയോ ചെയ്യും എന്നതിൻറെആദ്യത്തെ തെളിവാണ് ഇത് ഒരു കാര്യം കൂടി അദ്ദേഹം വിശദമാക്കി അദ്ദേഹം ഈ പരീക്ഷണം രണ്ടു വ്യത്യസ്ത വ്യവസ്ഥകളിൽ ആവർത്തിച്ചു ഒരു വ്യവസ്ഥ സെല്ലുകൾ ഫൈബ്രോണെക്റ്റിൻ കോട്ടുചെയ്ത പ്രതലത്തിൽ വളർത്തുക എന്നതും മറ്റൊരു അവസ്ഥ സെല്ലുകൾ പോളി എൽ ലൈസിൻ ആവരണം ചെയ്ത പ്രതലത്തിൽവളർത്തുക എന്നതുമാണ് അതിനാൽ ഫൈബ്രോനെക്റ്റിൻ പ്രതലങ്ങളിൽ അദ്ദേഹം F A യുടെ വളർച്ച നിരീക്ഷിച്ചു അവയിൽ പൈപ്പറ്റിനാൽ ആഘാതം ഏൽക്കുന്ന സെല്ലുകളിൽ ഫോക്കൽ അഡ്ഹീഷനുകൾവളരുന്നു പക്ഷേ പോളി എൽ ലൈസിനിൽ F Aവളർച്ച ഇല്ല ഫൈബ്രോണെക്റ്റിനിൽ ഇന്റഗ്രിനുകൾ ഫൈബ്രോനെക്റ്റിനുമായി ഇടപഴകാനുള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നു പോളി എൽ ലൈസിനിൽ പൂർണ്ണമായും ചാർജ് അധിഷ്ഠിതമായ അഡ്ഹീഷനുകളാണ് പോളി എൽ ലൈസിൻ പോസിറ്റീവ് ചാർജ്ജ് ഉള്ളതും പ്ലാസ്മ മെംബറേൻ നെഗറ്റീവ് ചാർജ്ജ് ഉള്ളതുമാണ് അതിനാൽ നിങ്ങൾക്ക് ചാർജ് അധിഷ്ഠിത അഡ്ഹീഷൻ ഉണ്ട് അതിനാൽ ഈ ഫോഴ്സിനെ ആശ്രയിച്ചുള്ള വളർച്ച ഇന്റഗ്രിൻ അധിഷ്ഠിത അഡ്ഹീഷനുകൾക്ക് ബാധകമാണെന്ന് ഇത് തെളിയിച്ചു ഫോഴ്സുകളോടുള്ള ഫോക്കൽ അഡ്ഹീഷനുകളുടെ സംവേദനക്ഷമതയും കൂടാതെ ഈ ഫോഴ്സിനെ ആശ്രയിച്ചുള്ള വളർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്റഗ്രിൻ അധിഷ്ഠിത അഡ്ഹീഷനുകൾ ആവശ്യമാണ് എന്നും വിശദീകരിച്ച ആദ്യത്തെ പേപ്പറാണിത് ബെന്നി ഗൈഗറുടെമറ്റൊരു പഠനത്തിൽ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പുകൾ കാണാം ഈ ഫോക്കൽ അഡ്ഹീഷനുകളുടെ വളർച്ചയ്ക്ക് ഫോഴ്സുകൾ ആവശ്യമാണ് ഈ പരീക്ഷണാത്മക സജ്ജീകരണം സെല്ലുകളിൽ നിറയുന്നതായ അല്ലെങ്കിൽ സെല്ലുകൾക്ക് അഭിമുഖീകരിക്കാൻ പ്രാപ്തമായ ഫോഴ്സുകളെ കണക്കാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം അനുവദിച്ചില്ല അതിനാൽ യഥാർത്ഥത്തിൽ ഫോഴ്സുകളെ അളക്കുന്നതിനായി ആളുകൾ എലാസ്റ്റോമെറിക് പദാർത്ഥങ്ങൾ എടുക്കുന്നു നിങ്ങൾക്ക് അവയെ പാറ്റേൺ ചെയ്യാൻ കഴിയും ഇവ ഫൈബ്രോണെക്റ്റിൻ കുത്തുകളും എലാസ്റ്റോമെറിക് പദാർത്ഥവുമാണെന്നു സങ്കൽപ്പിക്കുക PDMS പോലെയുള്ള എലാസ്റ്റോമെറിക് പദാർത്ഥങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇനർട് ആണ് അതിനാൽ സെല്ലുകൾക്ക് ഇതിൽ പറ്റിനിൽക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ പ്രതലത്തിലേക്ക് ഈ ഫൈബ്രോണെക്റ്റിൻ കുത്തുകൾ ചേർക്കുകയും അവയിലേക്കു നിങ്ങൾ സെല്ലുകൾ പ്ലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവ യഥേഷ്ടം ഇവയിൽ വ്യാപിക്കുകയും അവ സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ ഫോക്കൽ അഡ്ഹീഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഫൈബ്രോണെക്റ്റിൻ കുത്തുകളിലൂടെ ഇടപഴകുന്നതിലൂടെ പ്രതലത്തിൽ ഫോക്കൽ അഡ്ഹീഷനുകൾ രൂപംകൊള്ളുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്താണ് ഈ സജ്ജീകരണം അനുവദിക്കുന്നത് നിങ്ങൾക്ക് ഫൈബ്രോനെക്റ്റിൻ കുത്തുകളുടെ ഒരു ഗ്രിഡ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഈ ഓരോ കോണിലും നിങ്ങൾക്ക് ഒരു ഫൈബ്രോനെക്റ്റിൻ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇവ ഫൈബ്രോണെക്റ്റിൻ കുത്തുകൾ ആണെന്നും ഈ കുത്തുകളുടെ സ്ഥാനം നിങ്ങൾ ട്രാക്കു ചെയ്യുന്നുവെന്നും പറയാം ചില വ്യവസ്ഥകളിൽ ഉള്ള ഒരു സെല്ലിന്റെ രൂപരേഖ വയ്ക്കുകയാണെങ്കിൽ സ്ഥാനഭ്രമം സംഭവിച്ചിട്ടുള്ള ചുവന്ന കുത്തുകളെയാണ് പച്ച നിറത്തിലുള്ള കുത്തുകൾ കൊണ്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിനാൽ പച്ച കുത്തുകൾ ചുവന്ന കുത്തുകളുടെ സ്ഥാനമാറ്റം സംഭവിച്ച സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇതൊരു ഗ്രിഡ് ആയതിനാൽ ഏത് ദിശയിലേക്കാണ് ഈ ബിന്ദുക്കൾക്ക് സ്ഥാന മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും ഓരോ ഫോക്കൽ അഡ്ഹീഷന്റെയും സ്ഥാനചലനം നിർണ്ണയിക്കാൻ ഇത് എന്നെ അനുവദിക്കും അതിനാൽ ഈ സ്ഥാനങ്ങളിൽ നിന്നും ഓരോന്നിന്റെയും സ്ഥാനചലനം എത്രമാത്രം സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു കാരണം ഈ പദാർത്ഥം ഇലാസ്റ്റിക് ആണ് അതിനാൽ തന്നെ വസ്തുവിന്റെസ്പ്രിംഗ് കോൺസ്റ്റന്റ്ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഡെൽറ്റ ഡി Δ dഗുണിക്കാം അതിനാൽ ഫോക്കൽ അഡ്ഹീഷനിൽ സെൽ ചെലുത്തുന്ന ഫോഴ്സ് k Δ d ആണ് അതിനാൽ ഈ തന്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോക്കൽ അഡ്ഹീഷനിൽ സെൽ ചെലുത്തുന്ന ഫോഴ്സ് കണക്കാക്കാൻ കഴിയും പരീക്ഷണത്തിലൂടെ എന്താണ് സാധിക്കുക ഞാൻ ഒരു സെൽ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് സെല്ലിന്റെ ഭാഗമാണെന്ന് പറയാം ഇത് ന്യൂക്ലിയസ് ആണ് ഈ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഫോക്കൽ അഡ്ഹീഷന്റെ സ്ഥാനം ഓരോ ഫോക്കൽ അഡ്ഹീഷന്റെയും വലുപ്പം ഓരോ ഫോക്കൽ അഡ്ഹീഷന്റെയും ആകൃതി അതുപോലെ തന്നെ ഓരോ ഫോക്കൽ അഡ്ഹീഷനിലും ചെലുത്തുന്ന ഫോഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ രചയിതാക്കൾ കണ്ടെത്തിയത് എന്തെന്നാൽ ഞാൻ ഈ ചുവന്ന അസ്ത്ര ചിഹ്നങ്ങൾ വരച്ചിട്ടുണ്ട് ഇവ ഓരോ ഫോക്കൽ അഡ്ഹീഷനിലേയും ഫോഴ്സുകളെചിത്രീകരിക്കുന്നു അതിനാൽ ഓരോ അസ്ത്ര ചിഹ്നത്തിന്റെയും നീളം ചെലുത്തിയ ഫോഴ്സിന്റെവ്യാപ്തിക്ക് തുല്യമാണ് കൂടാതെ അവയുടെ ദിശസെൽ ഫോഴ്സ് ചെലുത്തിയ ദിശയെ ചിത്രീകരിക്കുന്നു ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ ഫോക്കൽ അഡ്ഹീഷന് ഏറ്റവും ഉയർന്ന ഫോഴ്സ് ഉണ്ട് എന്നതാണ് അതിനാൽ പ്രയോഗിക്കുന്ന ഫോഴ്സിനും ഫോക്കൽ അഡ്ഹീഷനുകളുടെ വലുപ്പവുംതമ്മിൽ ഒരു സ്കെയിലിംഗ് ഉണ്ട് അപ്പോൾ ഫോക്കൽ അഡ്ഹീഷന്റെ വലുപ്പവും ഫോഴ്സും തമ്മിൽ ഒരു സ്കെയിലിംഗ് ഉണ്ട് ഇവയെല്ലാം ഒരു ദീർഘവൃത്തമായി കണക്കാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രധാന അക്ഷത്തിന്റെ ദിശയും ഫോഴ്സിൻറെ ദിശയും ഒന്നാണ് ഇതു സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഫോക്കൽ അഡ്ഹീഷനുകളുടെ ഫോഴ്സുകൾ അവയുടെ ഫോഴ്സുകളുടെ തന്നെ ദിശയിലാണു വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു കാര്യങ്ങൾ ആണുള്ളത് ഫോക്കൽ അഡ്ഹീഷന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സുകളും വലുതായിരിക്കും ഫോക്കൽ അഡ്ഹീഷന്റെ ഏറ്റവും നീളമുളള അക്ഷം അതേ ദിശയിൽ പ്രയോഗിച്ച ഫോഴ്സിന് സമാനമായിരിക്കും ന്യൂക്ലിയസിനടുത്തേക്ക് പോകുംതോറും വലിയ ഫോഴ്സുകൾ സെല്ലുകളുടെ പുറം ഭാഗത്തായിരിക്കും അകത്തേക്കു പോകുന്തോറുംഫോക്കൽ അഡ്ഹീഷൻ ഫോഴ്സുകളുടെ വ്യാപ്തി നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ന്യൂക്ലിയസിന്ചുറ്റും ഞാൻ മനപ്പൂർവ്വം ചെറിയ അസ്ത്രങ്ങൾ ക്രമരഹിതമായി വരച്ചിട്ടുണ്ട് അതിനാൽ വലിപ്പത്തിൽ ചെറുതും ന്യൂക്ലിയസിനടുത്ത് പ്രാദേശികവൽക്കരിച്ചതുമായ ഈ ഫോക്കൽ അഡ്ഹീഷകൾക്ക്സ്ഥിരമായ ഒരു പ്രവർത്തനരീതിയില്ല അതോടെ ഞാൻ ഇവിടെ നിർത്തുന്നു എങ്കിലും ഫോക്കൽ അഡ്ഹീഷനനെ പറ്റി ഒന്നുകൂടി സംഗ്രഹിച്ച് പറയാം ഫോഴ്സും ഫോക്കൽ അഡ്ഹീഷൻ സംയോജനവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഫോക്കൽ അഡ്ഹീഷനുകളിൽ സെൽ ചുരുങ്ങുന്നതും അകത്തേക്ക് നയിക്കുന്നതുമായ ഫോഴ്സുകൾ ചെലുത്തുന്നു ഫോഴ്സിന്റെ വ്യാപ്തി ഫോക്കൽ അഡ്ഹീഷന്റെ വലുപ്പത്തിന് ആനുപാതികമാണ് ഒപ്പം ഫോഴ്സിന്റെ ദിശ ഫോക്കൽ അഡ്ഹീഷനുകളുടെ നീളമുള്ള അക്ഷവുമായി യോജിക്കുന്നു ഇന്നത്തേക്ക് അത്രയും മാത്രം അടുത്ത ദിവസത്തെ ലെക്ച്ചറിനായി കാത്തിരിക്കുന്നു